I അവസാന വീഡിയോയിൽ ഇന്റീജർ പോളിനോമിയൽ റിങ്ങുകൾ അല്ലെങ്കിൽ ഒരു വേരിയബിളിൽ ഉള്ള പോളിനോമിയൽ റിങ്ങുകൾ എന്നിവ കാണുകയും അത് ഒരു യുഎഫ്ഡി ആണെന്ന് കാണിക്കുകയും ചെയ്തു വാസ്തവത്തിൽ R ഒരു യുഎഫ്ഡിയാണെങ്കിൽ R ലെ ഒരു പോളിനോമിയൽ റിംഗ് എത്ര വേരിയബിളുകളിലും അല്ലെങ്കിൽ പരിമിതമായ എണ്ണം വേരിയബിളുകളിലും ഒരു യുഎഫ്ഡിയാണെന്ന് കാണിക്കുന്നു നമ്മൾ ഉപയോഗിക്കുന്ന നിർണായക വസ്തുതകളിൽ പ്രിമിറ്റീവ് പോളിനോമിയലുകളുടെയും ഗോസ്സ് ലെമയുടെയും സങ്കൽപ്പങ്ങളായിരുന്നുകൂടാതെ ഏതെങ്കിലും റാഷണൽ പോളിനോമിയലിനെ ഒരു പ്രിമിറ്റീവ് പോളിനോമിയൽ ഇന്റു ഒരു റാഷണൽ സംഖ്യയായി നമ്മൾ എഴുതിയിട്ടുണ്ട് ഇത് ഇന്റീജറിന്റെ ഇറെഡ്യൂസിബിലിറ്റിയെയും റാഷണൽ സംഖ്യയുടെ ഇറെഡ്യൂസിബിലിറ്റിയെയും താരതമ്യപ്പെടുത്താൻ നമ്മളെ അനുവദിച്ചു ZX ഒരു UFD ആണെന്ന് പറയുന്ന പ്രധാന സിദ്ധാന്തത്തിൽ നമ്മൾ നിർത്തി ഇന്ന് ഞാൻ ആ ആശയങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത് പോളിനോമിയലുകൾ ഇന്റീജറിനെക്കാളും റാഷണൽ സംഖ്യകളെക്കാളും ഇറെഡ്യൂസിബിൾ ആണെന്ന് സ്ഥിരീകരിക്കുന്നതിനുള്ള ഒരു സുപ്രധാന മാനദണ്ഡം തെളിയിക്കാൻ ആണ് ഇതിനെ ഐസൻസ്റ്റൈൻ മാനദണ്ഡം എന്ന് വിളിക്കുന്നു തന്നിരിക്കുന്ന പോളിനോമിയൽ ഇറെഡ്യൂസിബിൾ ആണോ എന്ന് പരിശോധിക്കാൻ ഇത് വളരെ ഉപയോഗപ്രദമായ ഒരു രീതിയാണ് ഇത് എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്നില്ല പക്ഷേ ഇത് പലപ്പോഴും ഉപയോഗിക്കാം മാത്രമല്ല ഇവിടെ ഇറെഡ്യൂസിബിലിറ്റി നിഗമനം ചെയ്യുന്നതിന് വളരെ ഉപയോഗപ്രദമാണ് ഞാൻ ആദ്യം മാനദണ്ഡം എഴുതട്ടെ എഫ് ഒരു റാഷണൽ ഇന്റീജർ പോളിനോമിയൽ ആണ്a n മൈനസ് 1 X n മൈനസ് 1 a 1 X പ്ലസ് a 0 ഇത് ഒരു ഇന്റീജർ പോളിനോമിയലായതിനാൽ കോഎഫിഷ്യന്റ് ഇന്റീജർ ആയിരിക്കും ഇപ്പോൾ ഒരു പ്രൈം ഇൻറിജർ നിലവിലുണ്ടെന്ന് കരുതുക അതായത് ഒരു പ്രൈം ഇൻറിജർ ഉണ്ട് അതായത് Z ലെ ഒരു പ്രൈം നമ്പർ p ഇനിപ്പറയുന്ന വ്യവസ്ഥകളെ തൃപ്തിപ്പെടുത്തുന്നു p വിഭജിക്കുന്നു അല്ലെങ്കിൽ വിഭജിക്കുന്നില്ല ആദ്യം p a n നെ വിഭജിക്കുന്നില്ല എന്ന് കരുതുക ഞാൻ ഇതുപോലെ എഴുതുമ്പോഴെല്ലാം ഞാൻ ഊഹിക്കുന്നു ഓർക്കുക നമ്മൾ ഇതുപോലൊരു പോളിനോമിയൽ എഴുതുമ്പോൾ ലീഡിങ് കോഎഫിഷ്യന്റ് നോൺസീറോ ആണെന്ന് നമ്മൾ എല്ലായ്പ്പോഴും അനുമാനിക്കും കാരണം നമ്മൾ ഏറ്റവും വലിയ ഡിഗ്രിയിൽ ആരംഭിക്കും അതിനാൽ n 0 അല്ല p a n നെ വിഭജിച്ചിട്ടില്ല p ഡിവൈഡ്സ് a n മൈനസ് 1 a 0 വരെ കൂടാതെ p സ്ക്വയറും a 0 യെ വിഭജിക്കില്ല ഇതാണ് അനുമാനം p ഡിവൈഡ്സ് a n p a n നെ വിഭജിക്കുന്നില്ല p ഡിവൈഡ്സ് a n മൈനസ് 1 a 0 വരെ p സ്ക്വയർ a 0 യെ വിഭജിക്കില്ല ഓർക്കുക ഈ രണ്ട് നിബന്ധനകളും ഇതിനകം സൂചിപ്പിക്കുന്നത് n പോസിറ്റീവ് ആണ് എന്നാണ് f എന്നത് കോൺസ്റ്റന്റ് അല്ലാത്ത പോളിനോമിയലാണ് ഓർക്കുക p a n നെ വിഭജിക്കരുതെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നു p ഡിവൈഡ്സ് എ 0 എന്നതിനർത്ഥം an ഉം a 0 ഉം വ്യത്യസ്തമാണ് അതായത് f ന് കുറഞ്ഞത് ഡിഗ്രി 1 എങ്കിലും ഉണ്ട് ഇത് ഒരു കോൺസ്റ്റന്റ് അല്ലാത്ത പോളിനോമിയലാണ് ഇത് സംഭവിക്കുകയാണെങ്കിൽ എന്താണ് നിഗമനം ക്യുഎക്സിൽ എഫ് എക്സ് ഇറെഡ്യൂസിബിൾ ആണെന്ന് നമുക്ക് ഉടനടി പറയാൻ കഴിയും പിന്നെ എഫ് എക്സ് ക്യുഎക്സിൽ ഇറെഡ്യൂസിബിൾ ആണ് അത് ഐസൻസ്റ്റൈൻ മാനദണ്ഡത്തിന്റെ നിഗമനമാണ് അത് ഇസഡ് എക്സിൽ ഇറെഡ്യൂസിബിൾ അല്ലെന്നല്ല എന്നിരുന്നാലും എഫ് പ്രിമിറ്റീവ് ആണെങ്കിൽ എഫ് എക്സ് ഇസഡ് എക്സിലും ഇറെഡ്യൂസിബിൾ ആണ് ഇത് തെളിയിക്കാനുള്ള ഒരു നല്ല മാനദണ്ഡമാണ് അതിനാൽ അവസാന രണ്ട് വീഡിയോകളിൽ നമ്മൾ വികസിപ്പിച്ച എല്ലാ സങ്കൽപ്പങ്ങളും ഇത് യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നു മാത്രമല്ല ഇത് നമുക്ക് വളരെ ഉപയോഗപ്രദമായ മാനദണ്ഡം നൽകുന്നു പോളിനോമിയലിന്റെ കോഎഫിഷ്യന്റ്കളുമായി ബന്ധപ്പെട്ട ചില നിബന്ധനകൾ തൃപ്തിപ്പെടുത്തുന്ന ഒരു പ്രൈം നമ്പർ ഉണ്ടെങ്കിൽ അത് Q X ൽ ഇറെഡ്യൂസിബിൾ ആണെന്ന് നമുക്ക് ഇപ്പോൾത്തന്നെ നിഗമനം ചെയ്യാം ഇത് ZX ൽ ഇറെഡ്യൂസിബിൾ ആണെന്ന് നമുക്ക് പൊതുവായി നിഗമനം ചെയ്യാൻ കഴിയില്ല പക്ഷേ അത് പ്രിമിറ്റീവ് ആണെങ്കിൽ Z X ൽ ഇറെഡ്യൂസിബിൾ ആണ് ഇത് തെളിയിക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ നൽകാൻ പോകുന്നു ഉദാഹരണത്തിന് നിങ്ങൾ എക്സ് പവർ 3 മൈനസ് 5 എക്സ് സ്ക്വയർ പ്ലസ് 10 എക്സ് പ്ലസ് 15 എടുക്കുക ഇത് ഇന്റീജർ പോളിനോമിയൽ റിംഗിൽ എടുക്കാം ഇത് a ഇത് ഒരു ഇന്റീജർ പോളിനോമിയൽ ആണ് തുടർന്ന് p ഈക്വൽ റ്റു 5ഇത് ഐസൻസ്റ്റൈൻ മാനദണ്ഡത്തിന്റെ അനുമാനത്തെ തൃപ്തിപ്പെടുത്തുന്നു നമ്മൾ ഇതുപോലൊന്ന് എഴുതാം എഫ് 2 ഈക്വൽ റ്റു എക്സ് ക്യൂബ്ഡ് മൈനസ് 5 എക്സ് സ്ക്വയേർഡ് മൈനസ് 10 എക്സ് പ്ലസ് 15 എന്ന് എഴുതാം ഇത് ഐസൻസ്റ്റൈൻ മാനദണ്ഡത്തിന്റെ സിദ്ധാന്തത്തെ തൃപ്തിപ്പെടുത്തുന്നു കാരണം 5 2 നെ വിഭജിക്കുന്നില്ലഎ 3 ഇവിടെ 2 ആണ് a 2 മൈനസ് 5ആണ് എ1 മൈനസ് 10 എ 0 എന്നത് 15 ആണ് 5 2 നെ ഹരിക്കില്ല 5 മൈനസ് 5 നെ വിഭജിക്കുന്നു 5 മൈനസ് 10 നെ വിഭജിക്കുന്നു 5 15 ഉം 5 സ്ക്വയർ 25 നെയും വിഭജിക്കുന്നു 15 നെ ഹരിക്കില്ല ക്യൂഎക്സിൽ എഫ് ഇറെഡ്യൂസിബിൾ ആണെന്ന് നമ്മൾ നിഗമനം ചെയ്യുന്നു ഐസൻസ്റ്റൈൻ മാനദണ്ഡത്തിന്റെ നിഗമനമാണിത് F എന്നത് പ്രിമിറ്റീവ് ആണ് എന്തുകൊണ്ടാണത് ഓർക്കുക ഒരു പ്രിമിറ്റീവ് പോളിനോമിയൽ പോസിറ്റീവ് ലീഡിംഗ് കോഎഫിഷ്യന്റ് ഉള്ള ഒരു പോസിറ്റീവ് ഡിഗ്രി പോളിനോമിയലാണ് മാത്രമല്ല അതിന്റെ എല്ലാ കോഎഫിഷ്യന്റുകളുടെയും ജിസിഡി 1 ആണ് ഇവിടെ കോഎഫിഷ്യന്റ് 2 മൈനസ് 5 മൈനസ് 10 15 ജിസിഡി 1 ആണ് ഈ കോഎഫിഷ്യന്റ് എല്ലാം വിഭജിക്കുന്ന ഒന്നിൽ കൂടുതലുള്ള സംഖ്യകളൊന്നുമില്ല എഫ് പ്രിമിറ്റീവ് ആണ് അതിനാൽ എഫ് ഇസഡ് എക്സിലും ഇറെഡ്യൂസിബിൾ ആണ് നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഇത് വളരെ ഉപയോഗപ്രദമായ മാനദണ്ഡമാണ് പോളിനോമിയലുകളുടെ ഇറെഡ്യൂസിബിലിറ്റിയെക്കുറിച്ച് നിഗമനം ചെയ്യുന്നത് പൊതുവെ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഈ സാഹചര്യത്തിൽ അത് ഇറെഡ്യൂസിബിൾ ആണ് എന്നു നമ്മൾ ഇതിനകം തന്നെ നിഗമനം ചെയ്തിട്ടുണ്ട് സമാനമായി നമുക്ക് ഉദാഹരണമായി എടുക്കാം f നമുക്ക് 12 എക്സ് പവർ 6 മൈനസ് 10 എക്സ് പവർ 5 പ്ലസ് 20 50 എക്സ് പവർ 4 മൈനസ് തേർഡ് 10 എക്സ് പ്ലസ് 60 എന്ന് പറയാം ഞാൻ വെറുതെ ചില പോളിനോമിയൽ എഴുതുകയാണ് വീണ്ടും പി ഈക്വൽ റ്റു 5 ശരി എന്തുകൊണ്ട് ഇത് പ്രവർത്തിക്കുന്നു കാരണം നിങ്ങൾ 5 പരിശോധിച്ചാൽ അത് ലീഡിങ്ങ് കോഎഫിഷ്യന്റ് ഒഴികെയുള്ള എല്ലാ കോഎഫിഷ്യന്റുകളെയും വിഭജിക്കുന്നു ലീഡിങ് കോഎഫിഷ്യന്റ് പി 12 നെ വിഭജിക്കുന്നില്ല പക്ഷേ പി 10നെ വിഭജിക്കുന്നു പി ഡിവൈഡ്സ് 5 ഡിവൈഡ്സ് 10 5 ഡിവൈഡ്സ് 50 5 ഡിവൈഡ്സ് മൈനസ് 10 5 ഡിവൈഡ്സ് 60 5 12 നെ വിഭജിക്കുന്നില്ല 25 60 നെ ഹരിക്കില്ല അതുകൊണ്ടു ക്യു എക്സിൽ എഫ് ഇറെഡ്യൂസിബിൾ ആണ് അത് ഐസൻസ്റ്റൈൻ മാനദണ്ഡത്തിന്റെ നിഗമനമാണ് ZX ൽ എന്താണ് അതിനായി ഇത് ഒരു പ്രിമിറ്റീവ് പോളിനോമിയലാണോ എന്ന് നിങ്ങൾ ചോദിക്കണം എഫ് പ്രിമിറ്റീവ് ആണോ ഇത് പ്രിമിറ്റീവ് അല്ല കാരണം എഫ് 2 ടൈംസ് എന്ന് എഴുതാൻ കഴിയും നിങ്ങൾക്ക് 2 ഫാക്ടർ ചെയ്യാം 6 എക്സ് പവർ 6 മൈനസ് 5 എക്സ് പവർ 5 25 എക്സ് പവർ 4 മൈനസ് 5 എക്സ് പ്ലസ് 30 ഇത് പ്രിമിറ്റീവ് അല്ല കാരണം കണ്ടെന്റ് 1 അല്ല എഫ് കണ്ടെന്റ് 2 ആണ് 1അല്ല എഫ് പ്രിമിറ്റീവ് അല്ല അതിനർത്ഥം എഫ് ഇസഡ്എക്സിൽ ഇറെഡ്യൂസിബിൾ ആണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല കാരണം നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയും ഇത് നിങ്ങൾക്ക് ഒരു ഫാക്ടറൈസേഷൻ നൽകുന്നു 2 എന്നത് Z X ലെ ഇറെഡ്യൂസിബിൾ എലമെന്റ് ആണ് f നെ 2 ടൈംസ് g എന്ന് എഴുതാം ഇവിടെ g ഇതാണ് ഇത് ഇറെഡ്യൂസിബിൾ ആണ് ഇത് ഇറെഡ്യൂസിബിൾ ആണ് ഇറെഡ്യൂസിബിൾ ആയ രണ്ട് പോളിനോമിയലുകളുടെ ഒരു പ്രോഡക്ട് ആയി എഫ് എഴുതാം അതിനർത്ഥം അത് ഇറെഡ്യൂസിബിൾ ആണ് അതേസമയം ഇത് ക്യുഎക്സിൽ സാധുവായ ഒരു ഫാക്ടറൈസേഷൻ അല്ല കാരണം 2 ക്യു എക്സിലെ ഒരു യൂണിറ്റാണ് ഇത് ശരിയായ രണ്ട് ഇറെഡ്യൂസിബിൾ ഡിവിസറുകളിലേക്ക് സാധുവായ ഒരു ഫാക്ടറൈസേഷനല്ല അതേസമയം ഇസഡ് എക്സിൽ ആണ് ക്യുഎക്സിൽ എഫ് ഇറെഡ്യൂസിബിൾ ആണ് പക്ഷേ ഇസഡ് എക്സിൽ ഇത് ഇറെഡ്യൂസിബിൾ അല്ല ക്യുഎക്സിൽ ഇറെഡ്യൂസിബിൾ ആയ ഒരു പോളിനോമിയൽ ഇൻറിജർ പോളിനോമിയലിന്റെ ഒരു ഉദാഹരണം ഇത് നൽകുന്നു പക്ഷേ ഇസഡ് എക്സിൽ ഇത് ഇറെഡ്യൂസിബിൾ അല്ല ഇപ്പോൾ ഈ ഉദാഹരണങ്ങൾക്ക് ശേഷം ഞാൻ ഐസൻസ്റ്റൈൻ മാനദണ്ഡം വേഗത്തിൽ തെളിയിക്കാൻ പോകുന്നു കഴിഞ്ഞ കുറച്ച് വീഡിയോകളിൽ നമ്മൾ വികസിപ്പിച്ച സിദ്ധാന്തം ഉപയോഗിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഇപ്പോൾ ഐസൻസ്റ്റൈൻ മാനദണ്ഡം തെളിയിക്കാൻ പ്രയാസമില്ല നമ്മൾ ചെയ്യാൻ പോകുന്നത് നാച്ചുറൽ മാപ്പ് റിംഗ് ഹോമോമോർഫിസം ഫൈ പി ഇസഡ് എക്സ് മുതൽ ഇസഡ് മോഡ് പി ഇസഡ് എക്സ് വരെ ഓർക്കുക എന്താണ് ഈ റിംഗ് ഹോമോമോർഫിസം ഇത് ഒരു പോളിനോമിയൽ എടുക്കുകയും റെസിഡ്യൂ മോഡ് പി ഉപയോഗിച്ച് കോഎഫിഷ്യന്റുകളെ മാറ്റുകയും ചെയ്യുന്നു നമുക്ക് നൽകിയാൽ നമുക്ക് ഒരു നിശ്ചിത പി നൽകിയിട്ടുണ്ട്പി എന്നത് ഐസൻസ്റ്റൈൻ മാനദണ്ഡത്തിന്റെ പ്രസ്താവനയിൽ നൽകിയിരിക്കുന്ന നിശ്ചിത ഫൈ പി പി എന്നത് ഒരു പ്രൈം നമ്പർ ആണ് ലീഡിങ് കോഎഫിഷ്യന്റ് അല്ലാതെ മറ്റ് എല്ലാ കോഎഫിഷ്യന്റസിനെയും വിഭജിക്കുന്ന പ്രൈം സംഖ്യ കോഎഫിഷ്യന്റും p സ്ക്വയറും കൺസ്ട്രയിന്റ്സ്നെ വിഭജിക്കുന്നില്ല നമ്മൾ ഇത് പരിഗണിക്കുന്നു ഇപ്പോൾ മുതൽ ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ലളിതമായ ഒരു അവകാശവാദമാണ് Q X ൽ f ഇറെഡ്യൂസിബിൾ ആണെന്ന് കാണിക്കാൻ ഞാൻ ശ്രമിക്കുന്നു അങ്ങനെയല്ലെന്ന് കരുതുക അതിനർത്ഥം ക്യുഎക്സിൽ എഫ് റെഡ്യൂസിബിൾ ആണെങ്കിൽ അത് ഇസഡ് എക്സിൽ റെഡ്യൂസിബിൾ ആകും ആദ്യം ഞാൻ ഈ ക്ലെയിം തെളിയിക്കും മുമ്പത്തെ വീഡിയോയിൽ ഇസഡ് എക്സ് ഒരു യുഎഫ്ഡിയാണെന്ന് നമ്മൾ തെളിയിച്ചപ്പോൾ നമ്മൾ തെളിയിച്ച ഫലങ്ങളിലൊന്ന് ഇതാണ് എഫ് എഫ്എക്സിൽ കോൺസ്റ്റന്റ് അല്ലാത്ത ഇറെഡ്യൂസിബിൾ പോളിനോമിയലാണെങ്കിൽ അതായത് ഇത് ഒരു സംഖ്യ പോളിനോമിയലാണെന്നും ഇസഡ് എക്സിൽ അത് ഇറെഡ്യൂസിബിൾ ആണ് അതിന് പോസിറ്റീവ് ഡിഗ്രി ഉണ്ട്അതുകൊണ്ട് അത് Q X ലും ഇറെഡ്യൂസിബിൾ ആണ് ഈ സാഹചര്യത്തിൽ f എന്നത് ഒരു കോൺസ്റ്റന്റ് അല്ലാത്ത പോളിനോമിയലാണ് അതിനാൽ f ZX ൽ ഇറെഡ്യൂസിബിൾ ആണെങ്കിൽ അത് Q X ലും ഇറെഡ്യൂസിബിൾ ആണ് ഈ ക്ലെയിം ഇതിനകം തെളിയിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഒരു നേരിട്ടുള്ള പ്രൂഫ് നൽകാൻ പോകുന്നു അതുവഴി ഇത് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകും മുമ്പത്തെ വാദം വ്യക്തമല്ലെങ്കിലും നിങ്ങൾക്ക് ഇത് മനസിലാവും ഈ പ്രസ്താവനയ്ക്കുള്ള കൂടുതൽ നേരിട്ടുള്ള വാദമാണിത് ക്യുഎക്സിൽ എഫ് റെഡ്യൂസിബിൾ ആണെങ്കിൽ അത് ഇസഡ് എക്സിൽ റെഡ്യൂസിബിൾ ആകും Q X ൽ g ഉം h ഉം ഉണ്ട് f എന്നാൽ gh എന്ന് എഴുതുക ഓർമ്മിക്കുക റെഡ്യൂസിബിൾ എന്നതിന്റെ അർത്ഥമെന്താണ് അതായത് Q X ൽ പോസിറ്റീവ് ഡിഗ്രിയുടെ രണ്ട് പോളിനോമിയലിന്റെ പ്രോഡക്ട് ആയി ഇത് എഴുതാം g h എന്നിവ രണ്ടും നോൺ കോൺസ്റ്റന്റ് ആണ്എഫ് ഇതുപോലെ എഴുതാം ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പ്രൊപോസിഷൻ കാരണം ഓരോ റാഷണൽ പോളിനോമിയലിനെയും അതിന്റെ കണ്ടെന്റ് ടൈംസ് ഒരു പ്രിമിറ്റീവ് പോളിനോമിയലായി എഴുതാം അതുപോലെ g എന്നത് g 0 എന്ന് എഴുതാം h dh 0 എന്ന് എഴുതാം ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഇത് മനസിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓരോ റാഷണൽ പോളിനോമിയലും ഒരു റാഷണൽ സംഖ്യയായി എഴുതാം c d എന്നിവ Q ൽ ആണ് g 0 ഉം h 0 ഉം പ്രിമിറ്റീവ് ആണ് ഞാൻ യഥാക്രമം gh നെ cg 0 എന്നും dh 0 എന്നും എഴുതുന്നു നമുക്ക് ഇത് ഉണ്ട് ഇപ്പോൾ ഓർക്കുക g 0 h 0 പ്രിമിറ്റീവ് ആണ് അതുകൊണ്ടു അവയുടെ പ്രോഡക്ട് ഗോസ് ലെമ പറയുംപോലെ പ്രിമിറ്റീവ് ആണ് f ഈക്വൽ ടു cd g 0 h 0 ഉം ആണ് ഇത് f ന്റെ കണ്ടെന്റ് ഇന്റു പ്രിമിറ്റീവ് പോളിനോമിയൽ പ്രോഡക്ടിന്റെ ഒരു യൂണീക് എക്സ്പ്രഷൻ ആണ് f ന്റെ കണ്ടെന്റ് cd ആണ് എന്നാൽ f എന്നത് a ആണെന്ന് ഓർക്കുക f എന്നത് നമുക്ക് നൽകിയ ഒരു പൂർണ്ണ സംഖ്യ പോളിനോമിയൽ ആണ് ഐസൻസ്റ്റൈൻ മാനദണ്ഡത്തിൽ f ഒരു ഇന്റീജർ പോളിനോമിയലാണ് ഇതിനർത്ഥം സിഡി ഇസഡിലാണെന്നാണ് കാരണം ഒരു ഇന്റീജർ പോളിനോമിയലിന്റെ കണ്ടെന്റ് ഒരു ഇന്റീജർ ആണ് കണ്ടെന്റ് അതിന്റെ കോഎഫിഷ്യന്റ്കളുടെ gcd ആണ് സിഡി Z ൽ ഉണ്ട് അതിനർത്ഥം f എന്നത് g 0 h 0 എന്ന് എഴുതാം ഓർക്കുക g 0 h 0 പ്രിമിറ്റീവ് ആണ് അതായത് നിർവചനം അനുസരിച്ച് അവ Z X ലാണ് അവ ZX ൽ ഉണ്ട് അതിനർത്ഥം ഇവിടെ ഇറെഡ്യൂസിബിൾ ഫാക്ടറൈസേഷൻ ഉണ്ട് ഇത് f ന്റെ ഒരു ഫാക്ടറൈസേഷനാണ് ഓർക്കുക g 0 h 0 എന്നിവയുടെ ഡിഗ്രി യഥാക്രമം g ന്റെ ഡിഗ്രിക്കും h ന്റെ ഡിഗ്രിക്കും തുല്യമാണ് കാരണം c d എന്നിവ കോൺസ്റ്റന്റ് ആണ് നിങ്ങൾ g നെ cg g 0 എന്ന് എഴുതുമ്പോൾ g g 0 എന്നിവയ്ക്ക് ഒരേ ഡിഗ്രി ഉണ്ട് ഇത് Z X ലെ f ന്റെ ഫാക്ടറൈസേഷനാണ് അതിനർത്ഥം QX ലെ ഫാക്റ്ററൈസേഷനിൽ നിന്നാണ് നമ്മൾ ആരംഭിച്ചതെങ്കിൽ g h എന്നിവ പൂർണ്ണ സംഖ്യകളായിരിക്കില്ല അവ റാഷണൽ പോളിനോമിയലുകൾ മാത്രമാണെന്ന് നമുക്ക് അറിയാം എന്നാൽ അവയെ അവയുടെ കണ്ടെന്റിന്റേയും പ്രിമിറ്റീവ് പോളിനോമിയലുകളുടെയും പ്രോഡക്ട് ആയി എഴുതാം കണ്ടെന്റിന്റെ പ്രോഡക്ട് ഒരു സംഖ്യയാണെന്ന് നിരീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇത് എഴുതാം അതിനാൽ യഥാർത്ഥത്തിൽ f സിഡിക്ക് തുല്യമല്ല g 0 h 0 ക്കു തുല്യമല്ല f എന്നത് g 0 h 0 ന് തുല്യമാണെന്ന് ഞാൻ പറയുന്നില്ല അത് cd g 0 h 0 ആണ് അതിനാൽ ഇത് ഇറെഡ്യൂസിബിൾ ഫാക്ടറൈസേഷനാണ് ഇത് ചെറിയ ഡിഗ്രി പോളിനോമിയലുകളുടെ പ്രൊഡക്ടിലേക്കുള്ള ഒരു ഫാക്ടറൈസേഷനാണ് അതിനാൽ എഫ് ഇസഡ് എക്സിൽ ഇറെഡ്യൂസിബിൾ അല്ല അതിനർത്ഥം എഫ് ഇസഡ് എക്സിൽ റെഡ്യൂസിബിൾ ആണ് ഇപ്പോൾ ഐസൻസ്റ്റൈൻ മാനദണ്ഡത്തിന്റെ തെളിവിലേക്ക് ഞാൻ മടങ്ങാൻ പോകുന്നു ഐസൻസ്റ്റൈൻ മാനദണ്ഡത്തിന്റെ നിഗമനം തെറ്റാണെങ്കിൽ ക്യുഎക്സിൽ f റെഡ്യൂസിബിൾ ആകും ഐസൻസ്റ്റൈൻ മാനദണ്ഡത്തിന്റെ നിഗമനം തെറ്റാണെങ്കിൽ ക്യു എക്സിൽ എഫ് റെഡ്യൂസിബിൾ ആകും മേൽപ്പറഞ്ഞ ക്ലെയിം അനുസരിച്ച് എഫ് ഇസഡ് എക്സിലും റെഡ്യൂസിബിൾ ആകും ശരിയാണ് ഇസഡ് എക്സിൽ ഇത് റെഡ്യൂസിബിൾ ആകും ക്യുഎക്സിൽ ഒരു പോളിനോമിയൽ റെഡ്യൂസിബിൾ ആകും എങ്കിൽ അത് Z X ൽ റെഡ്യൂസിബിൾ ആകും അതുകൊണ്ട് ഇത് Z X ൽ റെഡ്യൂസിബിൾ ആകും ഞാൻ ഇപ്പോൾ f g ടൈംസ് h gh ഇൻ Z Xഎന്ന് എഴുതാൻ പോകുന്നു ഇപ്പോൾ പരിഗണിക്കുക f ഇൻ ബൈ ഫൈ p ഈക്വൽ റ്റു ഇത് ഫൈ p Z X മുതൽ Z മോഡ് p ZX വരെയുള്ള മാപ്പ് ആണ് നമുക്ക് എന്താണ് ഉള്ളത് ഫൈ p ഓഫ് f എന്നത് ഫൈ p ഓഫ് gh കാരണം f g h എല്ലാം ഇവിടെയുണ്ട് f ഈക്വൽ റ്റു g h ആണ് ഫൈ p ഒരു റിംഗ് ഹോമോമോർഫിസമാണ് ഫൈ pf എന്നത് ഫൈ pgh ആണ് ഇത് ഈക്വൽ റ്റു ഫൈ pg ടൈംസ് ഫൈ p h ഇപ്പോൾ എന്താണ് ഫൈ pf f ഓർക്കുക ഞാൻ f an X n പ്ലസ് an മൈനസ് 1 X n മൈനസ് 1 പ്ലസ് a 1 എക്സ് പ്ലസ് 0 എന്ന് എഴുതി അതായത് ഫൈ p ഒരു റിംഗ് ഹോമോമോർഫിസമാണ് ഇതിനർത്ഥം ഇത് ഫൈ p യുടെ നിർവചനം അനുസരിച്ച് an ബാർ എക്സ് പവർ an an മൈനസ് 1 ബാർ എക്സ് പവർ എൻ മൈനസ് 1 an ബാർ എക്സ് പ്ലസ് 0 ബാർ ഇതാണ് ഫൈ p ചെയ്യുന്നത് ഫൈ പി ഒരു പോളിനോമിയൽ എടുത്ത് കോഎഫിഷ്യന്റ് മാറ്റുന്നു ഇത് എക്സ്നെ മാറ്റില്ല ഇത് ഇതിന് തുല്യമാണ് എന്നാൽ ഓർക്കുക ഇത് 0 ആണ് ഇത് 0 ആണ് ഇത് 0 ആണ് ഇത് an ബാർ X n ആണ് ഇതെന്തുകൊണ്ടാണ് കാരണം ഓർക്കുക p ഡിവൈഡ്സ് an മൈനസ് 1 പി ഡിവൈഡ്സ് an മൈനസ് 2 എന്നിങ്ങനെ വിഭജിക്കുന്നു p ഡിവൈഡ്സ് a 1 p ഡിവൈഡ്സ് a 0 ഇത് അനുമാനമാണ് നമുക്ക് ഇത് ഉണ്ട് p an നെ വിഭജിക്കുന്നില്ല അതായത് an ബാർ 0 അല്ല അതിനാൽ an ബാർ ടൈംസ് എക്സ് പവർ n ഒരു പൂജ്യമല്ലാത്ത പോളിനോമിയലാണ് ഫൈ pf യഥാർത്ഥത്തിൽ an Xan ബാർ X പവർ n ആണ് എന്നാൽ ഫൈ pf ഓർമ്മിക്കുക ഫൈ pg ടൈംസ് ഫൈ ph ആണ് അതിനാൽ ഫൈ png ടൈംസ് ഫൈ ph എന്നത് an X പവർ n ആണ് ഇപ്പോൾ f Z മോഡ് p ZX ൽ നമുക്ക് രണ്ട് പോളിനോമിയലുകൾ ഉണ്ട് അതിന്റെ പ്രോഡക്ട് ഇതാണ് ഇപ്പോൾ Z മോഡ് p ZX ഒരു യുഎഫ്ഡിയാണെന്ന് ഓർക്കുക കാരണം ഇത് ഒരു ഫീൽഡിലെ പോളിനോമിയൽ റിംഗ് ആണ് വാസ്തവത്തിൽ ഇത് ഇപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ഒരു PID ആണ് നമുക്ക് ഇത് ഒരു UFD മാത്രമായിരിക്കണം കാരണം Z മോഡ് p Z ഒരു ഫീൽഡ് ആണ് ഇത് ഒരു യുഎഫ്ഡിയാണ് അതിനാൽ യുഎഫ്ഡിയിലെ ഏതെങ്കിലും പോളിനോമിയൽ റിംഗ് ഒരു യുഎഫ്ഡിയാണ് ഇത് ഒരു യുഎഫ്ഡിയാണ് ഇതുപോലുള്ള ഒരു മോണോമിയലിന്റെ ഫാക്റ്ററൈസേഷൻ നിങ്ങൾക്കുണ്ട് ഇത് ഓർക്കുക ഒരൊറ്റ മോണോമിയൽ അതിനാൽ ഫൈ pg ഫൈ ph എന്നിവ മോണോമിയലുകളായിരിക്കണം അത് എന്തായിരിക്കും നിങ്ങൾക്ക് ഒരു പോളിനോമിയൽ ഇന്റു മറ്റൊരു പോളിനോമിയൽ ഉണ്ട് നിങ്ങൾക്ക് പ്രോഡക്ട് ഓഫ് ഫൈ pg ടൈംസ് പ്രോഡക്ട് ഓഫ് ഫൈ ph an ആണ് an കോൺസ്റ്റന്റ് ആണ്an ബാർ റിംഗിലെ ഒരു കോൺസ്റ്റന്റ് ആണ്അത് Z മോഡ് p Z ആണ് അതിനാൽ അവ എങ്ങനെ ആകാം അവ ഒരു കോഎഫിഷ്യന്റ് ആകാം bnbi ബാർ X പവർ ഐI ci ബാർ X പവർ j ഇവിടെ i plus j ഈക്വൽ റ്റു n ആണ് കൂടാതെ bi bar ci bar എന്നിവ Z mod p ZX ൽ ഉണ്ട് സാധ്യമായ ഒരേയൊരു ഫാക്ടറൈസേഷൻ ഇതായിരിക്കണം എക്സ് പവർ n എന്ന മോണോമിയലിന്റെ സാധ്യമായ ഒരേയൊരു ഫാക്ടറൈസേഷനാണിത് കാരണം മറ്റേതെങ്കിലും ഫാക്ടറൈസേഷൻ ഉണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഫൈ pg ക്കു രണ്ട് പദങ്ങളുണ്ടെങ്കിൽ പ്രോഡക്ട്ക്ടിലും നിങ്ങൾക്ക് രണ്ട് പദങ്ങൾ ഉണ്ടാകും വ്യത്യസ്ത ഡിഗ്രികളുടെ രണ്ട് പദങ്ങൾ ഉണ്ടാകും അതേസമയം ഇത് ഇവിടെ ഒരു മോണോമിയൽ മാത്രമേയുള്ളൂ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇത് an എക്സ് പവർ എൻ ന്റെ ഇറെഡ്യൂസിബിൾ ആയ ഘടകങ്ങൾ ആണ് ഒരു ഇറെഡ്യൂസിബിൾ ഘടകമേയുള്ളൂ അതായത് എക്സ് എക്സ് പവർ n ന് ഒരു ഇറെഡ്യൂസിബിൾ ഘടകം മാത്രമേയുള്ളൂ നിങ്ങൾക്ക് ഇത് X ടൈംസ് X ടൈംസ് X n ടൈംസ് എന്ന് എഴുതാം an ബാർ എക്സ് പവറിനു മറ്റൊരു ഇറെഡ്യൂസിബിൾ ഘടകവുമില്ല ഒന്നേയുള്ളു അതിന്റെ അർത്ഥം an ബാർ എക്സ് പവർ എൻ ന്റെ ഏതെങ്കിലും ഡിവൈസർ എക്സ് പവർ ആയിരിക്കണം നമ്മൾ അത് കാര്യമാക്കുന്നില്ല പക്ഷേ ചില കോഎഫിഷ്യന്റ് ഉണ്ടാകും ഇത് bi ബാർ X i ci ബാർ X j ആണ് ഇപ്പോൾ ഇത് എന്താണ് അർത്ഥമാക്കുന്നത് ഫൈ pg ai അല്ലെങ്കിൽ എന്റെ നൊട്ടേഷൻ അനുസരിച്ച് bi ബാർ X power i ഫൈ ph എന്നത് ci ബാർ X പവർ j cj ബാർ X പവർ j ആണ് നിങ്ങൾ c j യും എഴുതണം ഇപ്പോൾ g എന്താണ് എന്ന് ചിന്തിക്കുക f എന്നത് g h ആണ് g എന്നത് ZX ലെ ചില പോളിനോമിയലാണ് നിങ്ങൾ മോഡുലസ് പി എടുക്കുമ്പോൾ x പവർ i മാത്രമാണ് നിലനിൽക്കുന്നത് അതിനാൽ g യുടെ കോൺസ്റ്റന്റ് ആയ പദം 0 ആണെന്ന് നമുക്ക് നിഗമനം ചെയ്യാം അതുപോലെ h ന്റെ കോൺസ്റ്റന്റ് ആയ പദം 0 ആണ് കാരണം ക്ഷമിക്കണം ഇത് 0 അല്ല എനിക്ക് g ബാർ ഫൈ pg അല്ലെങ്കിൽ ഫൈ ph എന്നതിന്റെ കോൺസ്റ്റന്റ് ആയ പദം 0 ആണ് എന്ന് പറയാനാകില്ല നമുക്ക് പറയാനാകുന്നത് g യുടെ ഒരു കോൺസ്റ്റന്റ് ആയ പദത്തെ p കൊണ്ട് ഹരിക്കാവുന്നതാണ് അതാണ് ഞാൻ പറയേണ്ടത് അതുപോലെ h ന്റെ കോൺസ്റ്റന്റ് ആയ പദത്തെ p കൊണ്ട് ഹരിക്കാം നിങ്ങൾക്ക് രണ്ട് പോളിനോമിയൽ ഉണ്ട് ഒരു പോളിനോമിയൽ g ഉണ്ട് മോഡുലസ് പി എടുക്കോമ്പോൾ കോൺസ്റ്റന്റ് ആയ പദം അപ്രത്യക്ഷമാകും കാരണം ഫൈ pg ഈക്വൽ റ്റു bi X i ആണ് മാത്രമല്ല ഐ j പോസിറ്റീവ് ആണെന്ന് പറയണം കാരണം ഇത് ഒരു റാഷണൽ പോളിനോമിയലുകളുടെ ഫാക്ടറൈസേഷനിൽ നിന്നാണ് വരുന്നത് നിങ്ങൾക്ക് പോസിറ്റീവ് ഡിഗ്രി ഉള്ള രണ്ട് പോളിനോമിയലുകൾ ഉണ്ട് നിങ്ങൾ മോഡുലസ് p എടുക്കോമ്പോൾ കോൺസ്റ്റന്റ് ആയ പദം ഇല്ലാതാകും കാരണം എക്സ് പവർ ഐ ടേം നിലനിൽക്കുന്നു g യുടെ കോൺസ്റ്റന്റ് ആയ പദം ഇല്ലാതാകുന്നു അതിനർത്ഥം ഇത് Z mod p Z ൽ 0 ആയി മാറുന്നു അതായത് ഇത് p കൊണ്ട് ഹരിക്കാവുന്ന ഒന്നാണ് ഇത് Z ൽ p കൊണ്ട് ഹരിക്കാം അതുപോലെ h ന്റെ കോൺസ്റ്റന്റ് ആയ പദം എ 0 ഉം Z മോഡ് p Z ആയി മാറുന്നു അതിനെ Z ൽ p കൊണ്ട് ഹരിക്കാം ഇപ്പോൾ g യുടെ കോൺസ്റ്റന്റ് ആയ പദം p കൊണ്ട് ഹരിക്കുമ്പോഴും h ന്റെ കോൺസ്റ്റന്റ് ആയ പദം p കൊണ്ട് ഹരിക്കുമ്പോഴും f ന്റെ കോൺസ്റ്റന്റ് ആയ പദം ഓർക്കുക f ന്റെ കോൺസ്റ്റന്റ് ആയ പദം g യുടെ കോൺസ്റ്റന്റ് ആയ പദം ഇന്റു h ന്റെ കോൺസ്റ്റന്റ് ആയ പദം നിങ്ങൾ g h എന്നീ രണ്ട് പോളിനോമിയലുകൾ ഗുണിക്കുമ്പോൾ ആ പ്രൊഡക്ടിലെ കോൺസ്റ്റന്റ് ആയ പദം g യുടെ കോൺസ്റ്റന്റ് ഇന്റു hന്റെ കോൺസ്റ്റന്റ് ആണ് കോൺസ്റ്റന്റ് ആയ പദങ്ങൾ ഗുണിക്കുന്നു f ന്റെ കോൺസ്റ്റന്റ് ആയ പദം g ഇന്റു hന്റെ കോൺസ്റ്റന്റ് ആണ് ഇത് p കൊണ്ട് ഹരിക്കാം ഇത് p കൊണ്ട് ഹരിക്കാം എഫ് എന്നതിന്റെ കോൺസ്റ്റന്റ് ആയ പദം പി സ്ക്വയർ കൊണ്ട് ഹരിക്കാം കാരണം ഇത് പി ടൈംസ് സംതിങ് എല്ലാം p സ്ക്വയർ ടൈംസ് സംതിങ് ഇത് p സ്ക്വയർ കൊണ്ട് ഹരിക്കാം പക്ഷേ ഇത് p a 0 യെ വിഭജിക്കുന്നില്ല എന്ന അനുമാനത്തെ ലംഘിക്കുകയോ വിരുദ്ധമാക്കുകയോ ചെയ്യുന്നു ഓർക്കുക p ഡിവൈഡ്സ് an മൈനസ് 1pവരെ a0 യെ വിഭജിക്കുന്നു എന്നും ഞാൻ അനുമാനിച്ചു p a 0 യെവിഭജിക്കുന്നില്ല എന്ന് കിട്ടിഇപ്പോൾ അത് വൈരുദ്ധ്യം നേടുന്നു ക്യുഎക്സിൽ എഫ് ഇറെഡ്യൂസിബിൾ ആണെന്ന് ഇത് തെളിയിക്കുന്നു ഇപ്പോൾ ഇത് ഐസൻസ്റ്റൈൻ മാനദണ്ഡത്തിന്റെ ആദ്യ പ്രസ്താവന തെളിയിക്കുന്നു ക്യുഎക്സിൽ എഫ് ഇറെഡ്യൂസിബിളും പ്രിമിറ്റീവുമാണെങ്കിൽ എഫിന്റെ കണ്ടെന്റ് പ്രിമിറ്റീവ് ആണ് ഇസഡ് എക്സിൽ എഫ് ഇറെഡ്യൂസിബിൾ ആണെന്ന് ഇപ്പോൾ കാണിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എഫും പ്രിമിറ്റീവ് ആണെന്ന് കരുതുക എഫ് ഇസഡ് എക്സിൽ ഇറെഡ്യൂസിബിൾ അല്ലെങ്കിൽ എഫ് ഇസഡ് എക്സിൽ റെഡ്യൂസിബിൾ ആണ്എങ്കിൽ എഫ് എഫ് 1 ആയിരിക്കണം എഫ് സി ടൈംസ് എഫ് 0 ആയി എഴുതാം ഇവിടെ സി ഇസഡിലും എഫ് 0 ഇറെഡ്യൂസിബിളുമാണ് അല്ലെങ്കിൽ എഫ് 0 ZX ലെ മറ്റൊരു പോളിനോമിയൽ ആണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എഫ് എന്നത് രണ്ട് നോൺ കോൺസ്റ്റന്റ് ഇന്റീജർ പോളിനോമിയലുകളുടെ പ്രോഡക്ട് ആയി എഴുതാൻ കഴിയില്ല എന്നതാണ് നമ്മൾ പറയുന്നത് എന്താണെന്നുവച്ചാൽ ഞാൻ എഫ് സി ടൈംസ് എഫ് 0 ആയി എഴുതുന്നു ഇവിടെ സി ഇസഡ് എക്സിൽ ആണ് കാരണം എഫ് രണ്ട് നോൺസീറോയുടെ പ്രോഡക്ട് ആയി എഴുതാൻ കഴിയില്ല ക്ഷമിക്കണം രണ്ട് നോൺ കോൺസ്റ്റെൻറ്റ് ഇൻറിജർ പോളിനോമിയലുകളുടെ എന്തുകൊണ്ടാണത് രണ്ട് കോൺസ്റ്റന്റ് അല്ലാത്ത ഇന്റീജർ പോളിനോമിയലുകളുടെ ഒരു പ്രോഡക്ട് ആയി എഫ് എഴുതാൻ കഴിയുമെങ്കിൽ ഇത് രണ്ട് കോൺസ്റ്റന്റ് അല്ലാത്ത റാഷണൽ പോളിനോമിയലുകളുടെ ഒരു പ്രോഡക്ട് ആയും എഴുതാം കാരണം ഏതെങ്കിലും ഇന്റീജർ പോളിനോമിയൽ ഒരു റാഷണൽ പോളിനോമിയലാണ് ക്യുഎക്സിൽ എഫ് ഇറെഡ്യൂസിബിൾ ആണെന്ന് നമ്മൾ ഇതിനകം തന്നെ തെളിയിച്ചു രണ്ട് പോസിറ്റീവ് ഡിഗ്രി റാഷണൽ പോളിനോമിയലുകളുടെ പ്രോഡക്ട് ആയി f എഴുതാൻ കഴിയില്ല അത് ZX ൽ ഇറെഡ്യൂസിബിൾ അല്ലെങ്കിൽ f നു ഒരു ഇന്റീജറിന്റെയും ഇന്റീജർ പോളിനോമിയലിൻെറയും പ്രോഡക്ട് ആയുള്ള സാധ്യമായ ഒരു ഫാക്ടറൈസേഷൻ മാത്രമേയുള്ളൂ എന്നാൽ തീർച്ചയായും c ഒരു യൂണിറ്റല്ല നമുക്ക് fഎന്നാൽ cf 0 ആണ് c 1 ന് തുല്യമല്ല അല്ലെങ്കിൽ c മൈനസ് 1 ന് തുല്യമല്ല കാരണം ഇത് ഇറെഡ്യൂസിബിൾ ഫാക്ടറൈസേഷനാണ് അതുകൊണ്ട് ഇത് രണ്ട് നോൺ യൂണിറ്റുകളുടെ പ്രോഡക്ട് ആയി എഴുതാം സി എഫ് 0 എന്നിവ യൂണിറ്റുകളല്ല അത് ഇറെഡ്യൂസിബിൾ അല്ല എന്നതിന്റെ അർത്ഥമാണ് രണ്ട് നോൺ യൂണിറ്റുകളുടെ പ്രോഡക്ട് ആയി ഇത് എഴുതാം f എന്നത് cf 0 ആണ് c എന്നത് ഒന്നോ മൈനസ് 1 അല്ല അതിനർത്ഥം c f ന്റെ എല്ലാ കോഎഫിഷ്യന്റ്കളെയും വിഭജിക്കുന്നു കാരണം f എന്നത് c ടൈംസ് f 0 c f ന്റെ എല്ലാ കോഎഫിഷ്യന്റ്കളെയും വിഭജിക്കുന്നു പക്ഷേ ഇത് സാധ്യമല്ല കാരണം f പ്രിമിറ്റീവ് ആണ് ഓർക്കുക f എന്നത് പ്രിമിറ്റീവ് ആണ്അതിന്റെ അർത്ഥം f ന്റെ കോഎഫിഷ്യന്റ്കളുടെ gcd 1 ആണ് Z ൽ f ന്റെ എല്ലാ കോഎഫിഷ്യന്റ്കളെയും വിഭജിക്കുന്ന ഒരു യൂണിറ്റ് ഇതര ഘടകവും ഉണ്ടാകരുത് എഫ് ഇസഡ്എക്സിലും ഇറെഡ്യൂസിബിൾ ആയിരിക്കണം ഇത് തെളിവ് പൂർത്തിയാക്കുന്നു ക്യുഎക്സിൽ എഫ് ഇറെഡ്യൂസിബിൾ ആണെന്ന് നമ്മൾ ആദ്യം തെളിയിച്ചു തുടർന്ന് ഇസഡ് എക്സിൽ അത് ഇറെഡ്യൂസിബിൾ ആണ് അതിനുള്ള ഒരേയൊരു മാർഗ്ഗം അത് ഒരു ഇന്റീജർ ഇന്റു പോളിനോമിയൽ ആണ് കാരണം ഇത് രണ്ട് കോൺസ്റ്റന്റ് അല്ലാത്ത പോളിനോമിയലുകളുടെ പ്രോഡക്ട് ആയി എഴുതാൻ കഴിയില്ല കാരണം ഇത് രണ്ട് കോൺസ്റ്റന്റ് അല്ലാത്ത ഇന്റീജർ പോളിനോമിയലുകളുടെ ഒരു പ്രോഡക്ട് ആയി എഴുതാൻ കഴിയുമെങ്കിൽ അത് രണ്ട് കോൺസ്റ്റന്റ് അല്ലാത്ത റാഷണൽ പോളിനോമിയലുകളുടെ ഒരു പ്രോഡക്ട് ആയി എഴുതാം ഇത് ക്യൂ എക്സിലെ ഇറെഡ്യൂസിബിലിറ്റി ലംഘിക്കുന്ന കാര്യമാണ് സാധ്യമായ ഒരേയൊരു ഫാക്ടറൈസേഷൻ ഒരു സംഖ്യ ഇന്റു ഇന്റീജർ പോളിനോമിയൽ ആണ് എന്നാൽ ആ സംഖ്യ f ന്റെ എല്ലാ കോഎഫിഷ്യന്റ്കളെയും വിഭജിക്കണം പക്ഷേ f പ്രിമിറ്റീവ് ആണ് അതിനാൽ സംഖ്യ 1 അല്ലെങ്കിൽ മൈനസ് 1 ആണ് f ഒരു പ്രിമിറ്റീവ് പോളിനോമിയൽ ആണെങ്കിൽ f ZX ലും ഇറെഡ്യൂസിബിൾ ആണ് ഇത് എത്രത്തോളം ഉപയോഗപ്രദമാണെന്ന് വ്യക്തമാക്കുന്നതിന് ഐസൻസ്റ്റൈൻ മാനദണ്ഡത്തിന്റെ ചില ഉദാഹരണങ്ങൾ ഞാൻ വേഗത്തിൽ തരാം തെളിവ് വ്യക്തമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇല്ലെങ്കിൽ ഇത് മുമ്പത്തെ വീഡിയോകളോട് സാമ്യമുള്ളതാണ് നിങ്ങൾക്ക് തിരികെ പോയി വീഡിയോ വീണ്ടും കാണാനാകും മാത്രമല്ല ഇത് നിങ്ങൾക്ക് വ്യക്തമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ചില ഉദാഹരണങ്ങൾ നമ്മൾ മുമ്പ് ചിലത് നോക്കി ഉദാഹരണത്തിന് എനിക്ക് എക്സ് പവർ 10 എടുക്കാം നമുക്ക് 27 എക്സ് പവർ 6 പ്ലസ് 213 എന്ന് പറയാം ഇത് ഇസഡ് എക്സ് അല്ലെങ്കിൽ ക്യുഎക്സിൽ ഇറെഡ്യൂസിബിൾ ആണോ ആദ്യം അത് ക്യുഎക്സിൽ ഇറെഡ്യൂസിബിൾ ആണ് ഇത് പ്രിമിറ്റീവ് ആയതുകൊണ്ട് ഇസഡ് എക്സിലും ഇത് ഇറെഡ്യൂസിബിൾ ആണ് ഇത് തീർച്ചയായും പ്രിമിറ്റീവ് ആണ് കാരണം ഒരു കോഎഫിഷ്യന്റ് 1 ആണ് അതിനാൽ ജിസിഡി 1 ആണ് കാരണം p ഈക്വൽ റ്റു 3 ആവശ്യമായ വ്യവസ്ഥകളെ തൃപ്തിപ്പെടുത്തുന്നു കാരണം 3 ഡിവൈഡ്സ് 27 3 ഡിവൈഡ്സ് 213 കൂടാതെ 3 ഇതിനെ വിഭജിക്കരുത് ഇവിടെ 1 ആണ് ലീഡിങ് കോഎഫിഷ്യന്റ് 1 ആണ്9 213 നെ വിഭജിക്കുന്നില്ല 9 213 നെ വിഭജിക്കുന്നില്ല നിങ്ങൾക്ക് വേഗത്തിൽ പരിശോധിക്കാൻ കഴിയും p ഈക്വൽ റ്റു 3 ഇത് ശരിയാണ് ഓരോ തവണയും ഒരു പോളിനോമിയൽ ഇറെഡ്യൂസിബിൾ ആണോ അല്ലയോ എന്ന് അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ആദ്യം ഒരു പ്രൈം ഉണ്ടോ എന്ന് നോക്കുക ചിലപ്പോൾ അത് പ്രവർത്തിക്കില്ല ചിലപ്പോൾ ഐസൻസ്റ്റൈൻ മാനദണ്ഡം നിങ്ങൾക്ക് ഉത്തരം നൽകുന്നില്ല പൊതുവേ ഒരു പോളിനോമിയൽ ഇറെഡ്യൂസിബിൾ ആണോ അല്ലയോ എന്ന് സ്ഥിരീകരിക്കാൻ ഒരു അൽഗോരിതം ഇല്ല നമ്മൾ ഇത് ചെയ്യാൻ പുതിയ വിദ്യകൾ പഠിക്കാൻ ശ്രമിക്കുകയാണ് ഐസൻസ്റ്റൈൻ മാനദണ്ഡം വളരെ ഉപയോഗപ്രദമായ ഒരു വിദ്യയാണ് ചില സമയങ്ങളിൽ ഐസൻസ്റ്റൈൻ മാനദണ്ഡം പ്രയോഗിക്കാൻ കഴിയില്ലെന്ന് തുടക്കത്തിൽ നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ ചില ചെറിയ പരിഷ്ക്കരണങ്ങൾ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നു ഉദാഹരണത്തിന് ഇവിടെ നിങ്ങൾ എക്സ് പവർ 5 പ്ലസ് 3 എക്സ് സ്ക്വയേർഡ് പ്ലസ് 2 എടുക്കുന്നു ഇത് ഒരു പോളിനോമിയലാണ് മാത്രമല്ല ഇത് ക്യുഎക്സിൽ ഇറെഡ്യൂസിബിൾ ആണോ അല്ലയോ എന്ന് അറിയണം അത് പ്രിമിറ്റീവ് ആണ് അത് qx ലോ ഇസഡ് എക്സിലോ ഇറെഡ്യൂസിബിൾ ആണോയെന്നും അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഇപ്പോൾ തീർച്ചയായും അവിടെ പ്രൈം പ്രവർത്തിക്കുന്നില്ല ശരിയാണ് കാരണം കോൺസ്റ്റന്റ്നെ വിഭജിക്കുന്ന പ്രൈം 2 ആണ് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ്നെ വിഭജിക്കുന്ന പ്രൈം 3മാത്രമാണ് ഒരു പ്രൈം ഇല്ല കാരണം 3 2നെ വിഭജിക്കുന്നില്ല 2 3 നെ വിഭജിക്കുന്നില്ല നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്നിരുന്നാലും ഇത് എഫ് ഓഫ് എക്സ് ആയി എടുക്കാം നിങ്ങൾ എഫ് ഓഫ് എക്സ് എടുക്കുകയാണെങ്കിൽ ഒരു ചെറിയ ട്രിക്ക് ചെയ്താൽ എളുപ്പമാകും ഇത് എക്സ് ക്യൂബായി എടുക്കട്ടെ നിങ്ങൾ എഫ് ഓഫ് എക്സ് പ്ലസ് 1 എടുക്കുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് എക്സ് 2 പ്ലസ് 3 എക്സ് സ്ക്വയേർഡ് പ്ലസ് 2 ആണെങ്കിൽ എക്സ് 1 എന്താണ് എക്സ് നെ എക്സ് പ്ലസ് 1 ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുക എക്സ് പ്ലസ് 1 ഹോൾ ക്യൂബ്ഡ് പ്ലസ് 3 ടൈംസ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയേർഡ് പ്ലസ് 2 ഇപ്പോൾ നിങ്ങൾ ഇത് വികസിപ്പിച്ച് സംയോജിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഇത് വേഗത്തിൽ ചെയ്യും നിങ്ങൾക്ക് ഇത് ശരിയാണോയെന്ന് പരിശോധിക്കാം നിങ്ങൾക്ക് എക്സ് ക്യൂബ്ഡ് ടേം പ്ലസ് 3 എക്സ് സ്ക്വയറും മറ്റൊരു 3 എക്സ് സ്ക്വയറും ഉണ്ടാകും അത് 6 എക്സ് സ്ക്വയറും കൂടാതെ 3 എക്സ് ഇവിടെ 6 എക്സ് ഉണ്ടാകും ഇവിടെ അത് 9 എക്സ് ആയിരിക്കും ഒന്ന് ഉണ്ടാകും ഇവിടെ 3 ഉണ്ടാകും ഇവിടെ 2 ഉണ്ടായിരിക്കും അത് 6 ആയിരിക്കും ഇപ്പോൾ p ഈക്വൽ റ്റു 3 അതിനർത്ഥം 3 ലീഡിങ് കോഎഫിഷ്യന്റ്നെ വിഭജിക്കുന്നില്ല 3 ഡിവൈഡ്സ് 6 3ഡിവൈഡ്സ് 9 3ഡിവൈഡ്സ് 6 9 6 നെ ഹരിക്കില്ല എഫ് ഓഫ് എക്സ് പ്ലസ് 1 ഇറെഡ്യൂസിബിൾ ആണ് എന്ന് നിഗമനം ചെയ്യാം എഫ് ഓഫ് എക്സ് പ്ലസ് 1 ഇറെഡ്യൂസിബിൾ ആണ് നിങ്ങൾക്ക് എന്തുചെയ്യാൻ കഴിയും കാരണം ഇത് ഐസൻസ്റ്റൈൻ മാനദണ്ഡം ബാധകമാകുന്ന ഒരു പോളിനോമിയലാണ് മാത്രമല്ല നമുക്ക് അത് ഇറെഡ്യൂസിബിൾ ആണെന്ന് പറയാൻ കഴിയും മാത്രമല്ല ക്യുഎക്സിലും ഇസഡ് എക്സിലും ഞാൻ പറയണം കാരണം ഇത് ഒരു പ്രിമിറ്റീവ് പോളിനോമിയലാണ് ഇസഡ് എക്സിലും ഇത് ഇറെഡ്യൂസിബിൾ ആണ് എന്നാൽ യഥാർത്ഥ ചോദ്യം എഫ് എക്സിനാണ് എഫ് എക്സിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാൻ കഴിയും ഇസഡ് എക്സിലും എഫ് എക്സ് ഇറെഡ്യൂസിബിൾ ആണെന്ന് ഞാൻ അവകാശപ്പെടുന്നു എന്തുകൊണ്ട് ഇല്ലെങ്കിൽ നമുക്ക് എഫ് എക്സ് ജി എക്സ് ടൈംസ് എച്ച് എക്സ് എന്ന് എഴുതാം ഇതൊരു പോളിനോമിയൽ ഐഡന്റിറ്റിയാണ് ഞാൻ ആദ്യം എളുപ്പത്തിൽ Q ചെയ്യട്ടെ അത് ഒരു പോളിനോമിയൽ ഐഡന്റിറ്റിയാണ് ഇവിടെ g h എന്നിവ പോസിറ്റീവ് ഡിഗ്രി പോളിനോമിയലുകളാണ് നിങ്ങൾക്ക് ഒരു പോളിനോമിയൽ ഐഡന്റിറ്റി ഉള്ള ഓരോ സമയത്തും വേരിയബിളിനെ മറ്റേതെങ്കിലും എക്സ്പ്രഷൻ വച്ച് മാറ്റിസ്ഥാപിക്കാൻ നമുക്ക് കഴിയും എഫ് എക്സ് പ്ലസ് 1 ജി എക്സ് പ്ലസ് 1 ടൈംസ് എച്ച് എക്സ് പ്ലസ് 1 ആയിരിക്കണം കാരണം നിങ്ങൾ ഇരുവശവും എക്സ് വച്ച് മാറ്റിസ്ഥാപിക്കുന്നു എന്നാൽ ഇത് ജി എക്സ് പോസിറ്റീവ് ഡിഗ്രിയാണെങ്കിൽ ജി എക്സ് പ്ലസ് 1 ന്റെ ഏറ്റവും ലളിതമായ ഡിഗ്രിയും പോസിറ്റീവ് ഡിഗ്രിയാണ് കാരണം വീണ്ടും g X X പവർ 3 X പവർ 2 Xg ഓഫ് Xപ്ലസ് 1 ഉണ്ടാകും അവിടെ എക്സ് ഉണ്ട് എക്സ് സ്ക്വയേർഡ് ടേം ഉണ്ടാകും കാരണം എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഉണ്ടാകും അത് നിങ്ങൾക്ക് എക്സ് സ്ക്വയർ നൽകും g X പ്ലസ് 1 ന്റെ ഡിഗ്രി g X ന്റെ ഡിഗ്രിക്ക് തുല്യമാണ് h പ്ലസ് 1 ന്റെ ഡിഗ്രി h X ന്റെ ഡിഗ്രിയാണ് ഇവിടെ നിങ്ങൾ രണ്ട് പോസിറ്റീവ് ഡിഗ്രി പോളിനോമിയലുകളുടെ ഒരു പ്രോഡക്ട് ആയി f X പ്ലസ് 1 എഴുതി ഇത് എക്സ് എഫ് ഓഫ് എക്സ് പ്ലസ് 1 ന്റെ ഇറെഡ്യൂസിബിലിറ്റിയെ ലംഘിക്കുന്നു എഫ് ഓഫ് എക്സ് പ്ലസ് 1 ഐസൻസ്റ്റൈൻ മാനദണ്ഡം അനുസരിച്ച് ഇറെഡ്യൂസിബിൾ ആണ് എഫ് ഓഫ് എക്സ് ഇറെഡ്യൂസിബിൾ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് 1 ഉം ഇറെഡ്യൂസിബിൾ ആണ് ഇത് നേരത്തെ നിഗമനത്തിലെ ഹൈപ്പോ ലംഘിക്കുന്നു എഫ് ഓഫ് എക്സും ഇറെഡ്യൂസിബിൾ ആണ് ക്യുഎക്സിൽ എഫ് എക്സ് ഇറെഡ്യൂസിബിൾ ആണെങ്കിൽ എഫ് എക്സ് പ്രിമിറ്റീവ് ആണ് എഫ് എക്സ് ഇസഡ് എക്സിലും ഇറെഡ്യൂസിബിൾ ആണ് കാരണംഅത് ക്യുഎക്സിൽ പ്രിമിറ്റീവും ഇറെഡ്യൂസിബിളുമാണെങ്കിൽ ഇസഡ് എക്സിലും ഇറെഡ്യൂസിബിൾ ആണെന്ന് നമ്മൾ ഇതിനകം തെളിയിച്ചു ഞാൻ നൽകുന്ന അവസാന ഉദാഹരണം ഐസൻസ്റ്റൈൻ മാനദണ്ഡം യഥാർത്ഥത്തിൽ വളരെ ഉപയോഗപ്രദമായ ഉദാഹരണമാണ് സൈക്ലോടോമിക് ഫീൽഡ് എക്സ്റ്റൻഷനുകൾ എന്ന് വിളിക്കുന്ന ഫീൽഡുകളും ഫീൽഡ് എക്സ്റ്റൻഷനുകളും പഠിക്കുമ്പോൾ ഇത് ഉപയോഗം വരും ഇത് ഇനിപ്പറയുന്നവയാണ് p ഏതെങ്കിലും പ്രൈം ഇൻറിജർ ആകട്ടെ p ഒരു പ്രൈം ഇൻറിജറായിരിക്കട്ടെ f X എക്സ് പവർ പി മൈനസ് 1 ടൈംസ് എക്സ് പ്ലസ് എക്സ് പവർ പി മൈനസ് 2 പ്ലസ് എക്സ് പവർ പി മൈനസ് 3 അങ്ങിനെ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 എന്ന പോളിനോമിയലായിരിക്കട്ടെ വീണ്ടും എന്റെ ചോദ്യം ഇതാണ് ഇത് ക്യുഎക്സിൽ ഇറെഡ്യൂസിബിൾ ആണോ അങ്ങനെയാണെങ്കിൽ അത് ഇസഡ് എക്സിൽ ഇറെഡ്യൂസിബിൾ ആയിരിക്കും പക്ഷേ നമുക്ക് പ്രൈം ഒന്നും ഉപയോഗിക്കാൻ കഴിയില്ല വീണ്ടും ഐസൻസ്റ്റൈൻ മാനദണ്ഡത്തിൽ പ്രൈം പ്രവർത്തിക്കുന്നില്ല കാരണം ഇവിടെയുള്ള എല്ലാ കോഎഫിഷ്യന്റ്കളും 1 ആണ് അതിനാൽ തീർച്ചയായും ഒരു പ്രൈമും കോഎഫിഷ്യന്റ്കളെ വിഭജിക്കുന്നില്ല എന്നാൽ വീണ്ടും മുമ്പത്തെ ഉദാഹരണത്തിൽ ഞാൻ ചെയ്തത് ഉപയോഗിക്കുക എന്നതാണ് തന്ത്രം ഞാൻ ഇപ്പോൾ ചെയ്യേണ്ടത് ഞാൻ എഫ് എക്സ് നെഎക്സ് മൈനസ് 1 കൊണ്ട് ഗുണിച്ചാൽ എനിക്ക് എന്ത് ലഭിക്കും എനിക്ക് എക്സ് മൈനസ് 1 പ്ലസ് ടൈംസ് എക്സ് പവർ പി മൈനസ് 1 പ്ലസ് എക്സ് പവർ പി മൈനസ് 2 പ്ലസ് എക്സ് സ്ക്വയേർഡ് പ്ലസ് എക്സ് പ്ലസ് 1 ലഭിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ഇത് ഗുണിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് എക്സ് പവർ പി മൈനസ് 1 ആണ് കാരണം മറ്റെല്ലാ ടെംസും പോകും എക്സ് പവർ പി മൈനസ് 1 പ്ലസ് എക്സ് പവർ പി മൈനസ് 1 മൈനസ് എക്സ് പവർ പി മൈനസ് 1 എന്നിവ ഉണ്ടാകും കൂടാതെ ഇത് ഒഴികെയുള്ള എല്ലാ ടെംസും പോകും നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത് എക്സ് മൈനസ് 1 ടൈംസ് എഫ് എക്സ് ആണ് എന്നാൽ y ഈക്വൽ റ്റു എക്സ് മൈനസ് 1 ആണ് ഞാൻ ഇവിടെ വേരിയബിളുകൾ മാറ്റുകയാണ് ഇപ്പോൾ എനിക്ക് എന്ത് ലഭിക്കും എനിക്ക് ഈ സമവാക്യം ലഭിക്കുന്നു y എക്സ് മൈനസ് 1 ടൈംസ് എഫ് എക്സ് ഈക്വൽ റ്റു എക്സ് പവർ പി മൈനസ് 1 ആണ് ഇതിൽ ഞാൻ എക്സ് മൈനസ് 1 നെ y കൊണ്ട് മാറ്റിസ്ഥാപിക്കുന്നു അതായത് yടൈംസ്y എന്നാൽ എക്സ് മൈനസ് 1 y പ്ലസ് 1 എക്സ് ആണ് എഫ് എക്സ് f y പ്ലസ് 1 ആണ് y ടൈംസ് fy പ്ലസ് 1 എന്നത് X മൈനസ് 1 അല്ലെങ്കിൽ X മൈനസ് 1 ആണ് എക്സ് വൈ പ്ലസ് 1 ഓവർ പി മൈനസ് 1 ആണ് കാരണം X yപ്ലസ് 1ആണ് y ടൈംസ് f 5 പ്ലസ് 1 ഈക്വൽ റ്റു y 1 y പ്ലസ് 1 പവർ പി മൈനസ് 1 എന്നാൽ ഇത് എന്താണ് ഇതാണ് y പവർ പി മൈനസ് 1 പ്ലസ് p ചൂസ് 2 y പവർ p മൈനസ് 2 അപ്ടു p y പവർ p y പ്ലസ് 1 മൈനസ് 1 ഇത് വരെ y പവർ 1 പവർ വൈ പ്ലസ് 1 പവർ പി ബൈനോമിയൽ സിദ്ധാന്തം ഉപയോഗിച്ച് നിങ്ങൾ y പ്ലസ് 1 പവർ പി വികസിപ്പിക്കുകയാണെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് കിട്ടുക yp പ്ലസ് p y p മൈനസ് 1 pചൂസ് 2 yp മൈനസ് 2 അവസാനം പ്ലസ് 1 ഈ മൈനസ് 1 ഉപയോഗിച്ച് നിങ്ങൾ അത് റദ്ദാക്കുന്നു നിങ്ങൾക്ക് അവസാനം y പവർ പിp y പവർ പി മൈനസ് 1 പി ചൂസ് 2 വൈ പവർ പി മൈനസ് 2p y എന്ന് കിട്ടും ഇപ്പോൾ ഇത് കൂടുതൽ പ്രതീക്ഷ നൽകുന്നതായി തോന്നുന്നു ശരിയാണ് ഇത് ഇറെഡ്യൂസിബിൾ ആണെന്ന് നിങ്ങൾക്ക് നിഗമനം ചെയ്യാം അതിനാൽ നമുക്ക് വിളിക്കാം ഇത് ഐസൻസ്റ്റൈൻ മാനദണ്ഡമനുസരിച്ച് f ഓഫ് f ടൈംസ് y ടൈംസ് f y പ്ലസ് 1 ആണ് നമുക്ക് അവകാശപ്പെടേണ്ടത് ഇതാണ് ഇത് ഞാൻ നിങ്ങൾക്കായി ഒരു അഭ്യാസമായി ചെയ്യാം പി ഡിവൈഡ്സ് പി ഐ 1 മുതൽ പി മൈനസ് 1 വരെ തീർച്ചയായും ഐ ഈക്വൽ റ്റു 1 p ചൂസ് i വെറും p ആയതിനാൽ p അതിനെ വിഭജിക്കുന്നുപി ഡിവൈഡ്സ് p ചൂസ് 2 p ചൂസ് 3 എന്നിങ്ങനെ ഇവിടെ ഒരു പ്രധാന വസ്തുത p ഒരു പ്രൈം ആണ് നിങ്ങൾക്ക് p ചൂസ് ഐ എന്ന് എഴുതാൻ കഴിയും ഇത് നിർവചനം അനുസരിച്ച് p ഫാക്റ്റോറിയൽബൈ i ഫാക്റ്റോറിയൽ ടൈംസ് p മൈനസ് i ഫാക്റ്റോറിയൽ നിങ്ങൾ ഐ ഫാക്റ്റോറിയൽ അല്ലെങ്കിൽ പി മൈനസ് ഐ ഫാക്റ്റോറിയൽ റദ്ദാക്കുന്നുവെന്ന് കരുതുക നിങ്ങൾക്ക് പി ടൈംസ് പി മൈനസ് 1അപ്റ്റു p മൈനസ് i പ്ലസ് 1 ബൈ i ഫാക്റ്റോറിയൽ ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും പി മൈനസ് ഐ ഫാക്റ്റോറിയൽ ഞാൻ റദ്ദാക്കി ഇപ്പോൾ നിങ്ങൾ ഇത് നോക്കുകയാണെങ്കിൽ ഐ p യേക്കാൾ കുറവാണ് p എന്നത് ഡിനോമിനേറ്ററിൽ ദൃശ്യമാകാൻ പോകുന്നില്ല i ഫാക്റ്റോറിയൽ 1 ടൈംസ് 2 ടൈംസ് 3 ടൈംസ് i വരെ ഡിനോമിനേറ്ററിൽ p ദൃശ്യമാകില്ല p ന്യൂമറേറ്ററിൽ ദൃശ്യമാകുന്നു അതിനർത്ഥം p ഇതിനെ വിഭജിക്കുന്നു ഇത് ഒരു പെട്ടെന്നുള്ള സൂചനയാണ് പക്ഷേ വാദം പൂർത്തിയാക്കാനും എല്ലാ ഐ ക്കും p ഡിവൈഡ്സ് p എന്ന് കാണിക്കാനും ഞാൻ നിങ്ങളെ അനുവദിക്കും ഐസൻസ്റ്റൈൻ മാനദണ്ഡമനുസരിച്ച് ക്യുഎക്സ് ഇസഡ് എക്സ് എന്നിവയിൽ y ടൈംസ് fy പ്ലസ് 1 ഇറെഡ്യൂസിബിൾ ആണ് കാരണം ലീഡിങ് കോഎഫിഷ്യന്റ് ഒഴികെയുള്ള എല്ലാ കോഎഫിഷ്യന്റ്കളെയും p വിഭജിക്കുന്നു p ഡിവൈഡ്സ് p ചൂസ് 2 p ഡിവൈഡ്സ് p ചൂസ് 3 p ഡിവൈഡ്സ് p p സ്ക്വയർ അവസാന കോഎഫിഷ്യന്റ്നെ വിഭജിക്കുന്നില്ല ക്ഷമിക്കണം ഇത് ശരിയല്ലെന്ന് ഞാൻ കരുതുന്നു ഞാൻ ഒരു പടി കൂടി തുടരണം നമുക്കുള്ളത് y ടൈംസ് fy പ്ലസ് 1 ഈക്വൽ റ്റു y പവർ പി ആണ് പി പി y പവർ പി മൈനസ് 1 പി ചൂസ്2 y പവർ പി മൈനസ് 2 പ്ലസ് പി വൈ ഇപ്പോൾ ഞാൻ ഇരുവശത്തും y കൊണ്ട് വിഭജിക്കുന്നു ഞാൻ y റദ്ദാക്കുന്നു Y കൊണ്ട് ഹരിക്കുക എന്താണ് എനിക്ക് ലഭിക്കുന്നത് fi fy പ്ലസ് 1 എന്നത് y പവർ പി മൈനസ് 1py പവർ പി മൈനസ് 2 പി ചൂസ് 2 വൈ പവർ പി മൈനസ് 3 പി ചൂസ് 2 വൈ പ്ലസ് പി മുമ്പത്തെ പദം കൊണ്ട് ഞാൻ വിഭജിച്ചാൽ p ചൂസ് 2 y സ്ക്വയർ അങ്ങനെ അത് p ചൂസ് ടു y പ്ലസ് p ആയി മാറുന്നു ഇപ്പോൾ ഐസൻസ്റ്റൈൻ മാനദണ്ഡം പ്രയോഗിക്കുക നേരത്തെ നമുക്ക് ഐസൻസ്റ്റൈൻ മാനദണ്ഡം പ്രയോഗിക്കാൻ കഴിയില്ല കാരണം ലീഡിങ് കോഎഫിഷ്യന്റ് കോൺസ്റ്റന്റ് ആയ പദം 0 ആണ് ഇപ്പോൾf y പ്ലസ് 1 ഇറെഡ്യൂസിബിൾ ആണെന്ന് നമുക്ക് നിഗമനം ചെയ്യാം പക്ഷേ എഫ് പ്ലസ് f y പ്ലസ് 1 എന്താണ് y പ്ലസ് 1 എക്സ് ആണ് ഓർക്കുക അതായിരുന്നു നമ്മുടെ വേരിയബിൾ y പ്ലസ് 1 ന്റെ മാറ്റം fy പ്ലസ് 1 ഇറെഡ്യൂസിബിൾ ആണ് അതിനാൽ f X ഇറെഡ്യൂസിബിൾ ആണ് ഓർമ്മിക്കുക fy പ്ലസ് 1 ഇറെഡ്യൂസിബിൾ ആണ് വീണ്ടും ZX ൽ പറയാൻ കഴിയും QX അല്ലെങ്കിൽ ZX ൽ ഇവിടെ ഇറെഡ്യൂസിബിൾ ആണ് p ഇവിടെ ആദ്യത്തെ കോഎഫിഷ്യന്റ് ആയ 1ഒഴികെയുള്ള എല്ലാ കോഎഫിഷ്യന്റ്കളെയും വിഭജിക്കുകയും p സ്ക്വയർ കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ്സിനെ വിഭജിക്കുകയും ചെയ്യുന്നില്ല ഈ ഐസൻസ്റ്റൈൻ മാനദണ്ഡം ഇത് ക്യുഎക്സിൽ ഇറെഡ്യൂസിബിൾ ആണെന്ന് നിഗമനം ചെയ്യുന്നതിന് ബാധകമാണ് പക്ഷേ ഇതും പ്രിമിറ്റീവ് ആണ് അതിനാൽ ഇത് ഇസഡ് എക്സ്സിലും ഇറെഡ്യൂസിബിൾ ആണ് f y പ്ലസ് 1 ഇസഡ് എക്സിൽ ഇറെഡ്യൂസിബിൾ ആണ് കാരണം y പ്ലസ് 1 ഈക്വൽ റ്റു എക്സ് ഈ വീഡിയോയിൽ നമ്മൾ ഐസൻസ്റ്റൈൻ മാനദണ്ഡം പരിശോധിച്ചു ഇത് ക്യുഎക്സ് അല്ലെങ്കിൽ ഇസഡ്എക്സിൽ ഇറെഡ്യൂസിബിലിറ്റി തെളിയിക്കാൻ വളരെ ഉപയോഗപ്രദമായ വഴിയാണ് കൂടാതെ ചില ഉദാഹരണങ്ങളും നമ്മൾ പരിശോധിച്ചു റിംഗ് തിയറിയിൽ ഈ കോഴ്സിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചതെല്ലാം പൂർത്തിയാക്കുന്നു അടുത്ത 1 അല്ലെങ്കിൽ 2 വീഡിയോകളിൽ നമ്മൾ ചെയ്തതെല്ലാം സംഗ്രഹിക്കാൻ ഞാൻ റിങ്ങുകളിലെ ചില പ്രോബ്ലെംസ് ചെയ്യും തുടർന്ന് നമ്മൾ ഫീൽഡുകളിലേക്ക് പോകും